പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് കോഴ്സിലേക്ക് സ്വാഗതം ഇത് ആഴ്ച 8 ആണ് ആഴ്ച 8 ന്റെ ആദ്യ ഭാഗം അതിനാൽ സ്ക്രീനിലെ പ്രൊഫൈലുകൾ നോക്കുക ആദ്യത്തേത് ഫേസ്ബുക്ക് ഹാൻഡിൽ പൊന്നുരംഗം ഡോട്ട് കുമാരഗുരു ആണ് രണ്ടാമത്തേത് പൊൻങ്കുരു എന്ന ട്വിറ്റർ പ്രൊഫൈൽ ആണ് മൂന്നാമത്തേത് ലിങ്ക്ഡ്ഇൻ ആണ് അത് വീണ്ടും പൊൻങ്കുരു ആണ് അതിനാൽ ഈ 3 യു ആർ എൽ കളോ ഈ 3 പ്രൊഫൈലുകളോ നിങ്ങൾക്ക് പൊരുത്തപ്പെടുത്താൻ കഴിയുമോ അത് ഒരേ പ്രൊഫൈൽ ആണെന്ന് പറയുമോ എന്നതാണ് ചോദ്യം കോഴ്സിന്റെ ഈ ആഴ്ചയിൽ നമ്മൾ ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ചോദ്യമാണിത് അതായതു എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് പൊന്നുരംഗം കുമാരഗുരു ട്വിറ്ററിൽ നിന്നുള്ള പൊൻങ്കുരു ലിങ്ക്ഡ്ഇനിൽ നിന്നുള്ള പൊൻങ്കുരു എന്നിവയുടെ ഹാൻഡിലുകൾ ഉണ്ട് എനിക്ക് ഇത് ശരിക്കും ഉപയോഗിക്കാമോ ഈ 3 പ്രൊഫൈലുകൾ ഒന്നുതന്നെയാണോ അല്ലെങ്കിൽ ഈ 3 പ്രൊഫൈലുകൾ ഒന്നുതന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഒന്നിലധികം ടെസ്റ്റ് കേസുകളോ സാഹചര്യങ്ങളോ ഉണ്ട് ഇതിനെ കുറിച്ച് പ്രഭാഷണത്തിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കും ഇവിടെ ഏറ്റവും മുകളിലുള്ളത് എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഏറ്റവും താഴെയുള്ളത് എന്റെ ട്വിറ്റർ പ്രൊഫൈലാണ് അടുത്ത സ്ലൈഡ് എന്റെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ആണ് എന്റെ പൊതു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ അതിനാൽ നിങ്ങൾ ഈ മൂന്ന് ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയും അല്ലെങ്കിൽ ഈ 3 പ്രൊഫൈലുകൾ എന്റേതാണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില സവിശേഷതകളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകും ഉദാഹരണത്തിന് രണ്ടിലും നിങ്ങൾക്ക് എന്റെ പ്രൊഫൈൽ ചിത്രം നോക്കാം അവ ഒന്നുതന്നെയാണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ എനിക്ക് ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കളെയും എന്നെ പിന്തുടരുന്ന ആളുകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ ട്വിറ്ററിൽ പിന്തുടരുന്ന അക്കൌണ്ടുകൾ കാണാൻ കഴിയും തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ഈ സവിശേഷതകളിൽ ചിലത് നോക്കാവുന്നതാണ് നിർഭാഗ്യവശാൽ ലിങ്ക്ഡ്ഇനിൽ എനിക്ക് ഉള്ള പൊതു പ്രൊഫൈലിൽ പ്രൊഫൈൽ ചിത്രം ഇല്ല പക്ഷേ ഡൽഹി ഐഐടിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡാറ്റാ സെക്യൂരിറ്റി കൌൺസിൽ ഓഫ് ഇന്ത്യ കാർനെഗി മെലോൺ യൂണിവേഴ്സിറ്റി അതുപോലുള്ള കണക്ഷനുകളുടെ വിശദാംശങ്ങളുണ്ട് ഉദാഹരണത്തിന് എന്റെ സ്വകാര്യ വെബ്സൈറ്റ് യഥാർത്ഥത്തിൽ ഡൽഹി ഐഐടിയിലെ വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്തിരിക്കാം അതിനാൽ ഫെയ്സ്ബുക്കിലും ട്വിറ്ററിലും ഇത് യഥാർത്ഥത്തിൽ ഒരേ വിശദാംശങ്ങളാണോ എന്നറിയാൻ നിങ്ങൾക്ക് ഈ കണക്ഷനുകൾ നോക്കാൻ കഴിയും എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഒന്നിലധികം അക്കൌണ്ടുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് സ്വയം ചോദിക്കാനാകുന്ന ചോദ്യം നിങ്ങളുടെ സ്വന്തം അക്കൌണ്ടുകൾ ഒന്നുതന്നെയാണോ അല്ലയോ എന്നറിയാൻ നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് ചേർക്കും എന്നതാണ് അതിനാൽ അതാണ് നമ്മൾ നോക്കുന്ന പ്രശ്നം അതിനാൽ വ്യത്യസ്ത സോഷ്യൽ നെറ്റ്വർക്കുകളിലുടനീളമുള്ള സാമൂഹിക കാൽപ്പാടുകൾ തിരിച്ചറിഞ്ഞു അവ ഒന്നുതന്നെയാണോ എന്ന് കണ്ടെത്തുന്നു പണ്ടത്തെപ്പോലെ പ്രഭാഷണങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങളിൽ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നടത്തിയ ചില ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അതിനാൽ ഞാൻ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്ന ഒരു പേപ്പർ ഇതാണ് അത് 'അദർ ടൈംസ് അദർ വാല്യൂസ് ലെവറെജിങ് അറ്റ്രിബ്യുട്ട് ഹിസ്റ്ററി ടു ലിങ്ക് യൂസർ പ്രൊഫൈൽ അക്രോസ്സ് ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്സ് Other times Other values Leveraging Attribute History to Link User Profiles across Online Social Networks ആണ് അതിനാൽ ഈ കണക്ഷനുകൾ യഥാർത്ഥത്തിൽ ഒന്നുതന്നെയാണോ എന്ന് അറിയുന്നത് വളരെ വലിയ നേട്ടവും ഉപയോഗപ്രദവും ആണ് പ്രേക്ഷകരെ തനിപ്പകർപ്പാക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഈ സ്ലൈഡ് നമുക്ക് നോക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഒരു ഫേസ്ബുക്ക് പേജിൽ 437000 ലൈക്കുകളും ലിങ്ക്ഡ്ഇനിൽ ഹാൻഡിൽ ഉള്ള 153000 ഫോളോവേഴ്സും ഉണ്ട് അതിനാൽ ചോദ്യം ഞാൻ ഒരു പരസ്യം അയയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വിവരങ്ങൾ അയയ്ക്കേണ്ടതെങ്കിൽ ഈ ഉപയോക്താക്കൾക്ക് ഞാൻ എവിടെയാണ് അയക്കേണ്ടത് എന്നതാണ് ഇത് അവയുടെയെല്ലാം ആകെത്തുകയായിരിക്കുമോ അതോ ചെറുതായിരിക്കുമോ ഈ 470000 പ്രൊഫൈലുകളിൽ ചിലതാകാം കാരണം അതേ ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ ട്വിറ്ററിലും കാണും അതേ ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ ലിങ്ക്ഡ്ഇനിൽ ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളിൽ ചിലർക്ക് ഫേസ്ബുക്ക് ട്വിറ്റർ ലിങ്ക്ഡ്ഇൻ എന്നിവയിൽ അക്കൌണ്ടുകൾ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് 3 ലും അക്കൌണ്ട് ഉണ്ടെങ്കിൽ എൻ പി ടി ഇ എൽ ൽ പിഎസ്ഒഎസ്എം നെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അയയ്ക്കാൻ പികെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫേസ്ബുക്കിൽ സോനു ഗുപ്ത ട്വിറ്ററിൽ സോനു ഗുപ്ത ലിങ്ക്ഡ്ഇനിൽ സോനു ഡോട്ട് ഗുപ്ത 24 എല്ലാവരും ഒരേ വ്യക്തിയായതിനാൽ അതേ ഹാൻഡിൽ വിവരങ്ങൾ അയയ്ക്കുന്നത് പ്രയോജനകരമല്ല എൻ പി ടി ഇ എൽ ൽ പിഎസ്ഒഎസ്എം നെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ എല്ലാ 3 അക്കൌണ്ടുകളിലും ഒരേ വ്യക്തിക്ക് അയയ്ക്കുന്നതിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിഭവങ്ങൾ പാഴാക്കുകയാണ് അതിനാൽ യഥാർത്ഥത്തിൽ നോക്കേണ്ട പ്രശ്നം അതാണ് അതിനാൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് ഒന്നിലധികം അക്കൌണ്ടുകൾ ഉണ്ട് നിങ്ങൾ ഒരു തവണ മാത്രമേ ആളുകൾക്ക് വിവരങ്ങൾ അയയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നതാണ് ചോദ്യം അതിനാൽ അതാണ് ലക്ഷ്യം എന്നാൽ ഈ പ്രശ്നത്തിന് നിരവധി ടെസ്റ്റ് കേസുകൾ ഉണ്ട് ഈ പ്രഭാഷണത്തിന്റെ അവസാനം ഞാൻ നിയമ നിർവ്വഹണ ഏജൻസികളിലും മറ്റ് സാഹചര്യങ്ങളിലും ഉപയോഗിച്ച ചില ടെസ്റ്റ് കേസുകളെക്കുറിച്ച് സംസാരിക്കും യഥാർത്ഥത്തിൽ അവയെ ഒരുമിച്ച് ചേർക്കുന്നന്നത് ഒരു സാങ്കേതിക വെല്ലുവിളിയും ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ ചില നെറ്റ്വർക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ വ്യക്തിഗതമായ വിശദാംശങ്ങൾ ലഭിക്കും ചില നെറ്റ്വർക്കുകളിൽ അവ യഥാർത്ഥത്തിൽ വ്യക്തിപരമല്ല ഉദാഹരണത്തിന് മുകളിലെ ഭാഗത്ത് വീഡിയോ പങ്കിടൽ സേവനമായ യുട്യൂബ് നെക്കുറിച്ച് ഞാൻ ഇവിടെ കാണിച്ചുതരുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ യുട്യൂബിൽ നിന്ന് അഭിപ്രായങ്ങൾ നേടാനാകും അവർക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും അവർ ഏതുതരം വീഡിയോകളാണ് യഥാർത്ഥത്തിൽ കാണുന്നത് ഒരു ഡേറ്റിംഗ് സൈറ്റായ ടിൻഡറിൽ ചെറിയ വ്യക്തിഗത വിവരങ്ങൾ ലഭ്യമാണ് ലിങ്ക്ഡ്ഇൻ പ്രൊഫഷണൽ വിശദാംശങ്ങളും ഫേസ്ബുക് വ്യക്തിഗത വിശദാംശങ്ങളും നൽകുന്നു അതിനാൽ വ്യത്യസ്ത തരം വിവരങ്ങളുള്ള ഈ വ്യത്യസ്ത സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് ലഭിക്കും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്ത് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്നതാണ് ചോദ്യം നിങ്ങൾ എങ്ങനെ അവയെ ഒരുമിച്ച് ചേർക്കുകയും നമ്മൾ ആരംഭിച്ച ചോദ്യത്തിന് ഉത്തരം സൃഷ്ടിക്കുകയും ചെയ്യും അതായത് ഒന്നിലധികം ഹാൻഡിലുകൾ സമാനമോ വ്യത്യസ്തമോ ആണെന്ന് കണ്ടെത്തുക അത് വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ പ്രൊഫൈൽ ലിങ്കിംഗിനെക്കുറിച്ചുള്ള ചോദ്യം നമുക്ക് സ്വീകരിക്കാവുന്ന സമീപനങ്ങൾ എന്തൊക്കെയാണ് പൊതുവായ ആട്രിബ്യൂട്ടുകൾ പട്ടികപ്പെടുത്തുക എന്നതാണ് നമുക്ക് സ്വീകരിക്കാവുന്ന സമീപനങ്ങൾ ഫെയ്സ്ബുക്കിന് എന്റെ ലിംഗഭേദം എന്റെ പ്രായം ഞാൻ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എനിക്ക് ബിരുദം ലഭിച്ച സ്ഥലം എന്നിവയുണ്ട് ട്വിറ്ററിൽ എന്റെ ഫോളോവേഴ്സ് എന്റെ പ്രൊഫൈൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം അത്തരം എല്ലാ വിവരങ്ങളും ഉണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രം ട്വിറ്ററിലും ഫെയ്സ്ബുക്കിലും ഒരേ പോലെ ആണ് ഇത്തരം പൊതുവായ എല്ലാ ആട്രിബ്യൂട്ടുകളും നമുക്ക് പട്ടികപ്പെടുത്താം യഥാർത്ഥത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ താരതമ്യം ചെയ്യാം ഞാൻ ടൈപ്പുചെയ്യുന്നത് സോഷ്യൽ നെറ്റ്വർക്കുകൾ ഞാൻ എന്ത് ഉള്ളടക്കമാണ് പോസ്റ്റുചെയ്യുന്നത് എന്റെ പ്രൊഫൈലുകളിലെ വിശദാംശങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി വാക്യഘടന അർത്ഥം അല്ലെങ്കിൽ ഗ്രാഫ് ഉപയോഗിച്ച് ആട്രിബ്യൂട്ട് മൂല്യങ്ങൾ നമുക്ക് താരതമ്യം ചെയ്യാം ഫേസ്ബുക്കിലെ സുഹൃത്തുക്കൾ എന്റെ അനുയായികൾ ട്വിറ്ററിൽ പിന്തുടരുന്നവർ എന്നിവ ഉപയോഗിക്കാം പിന്നെ ഉയർന്ന സാമ്യം ഉണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ ഞാൻ കാണിച്ച ഉദാഹരണത്തിൽ അത് രണ്ട് സ്ഥലങ്ങളിലും ഒരേ പ്രൊഫൈൽ ചിത്രമാണ് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഒരേ വ്യക്തിയായിരിക്കും എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ള വിശദാംശങ്ങൾ മാത്രം കണ്ടാൽ മതിയോ എന്നതാണ് ചോദ്യം കഴിഞ്ഞ കാലത്തെ വിശദാംശങ്ങളും നിങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിയും അതായത് ഞാൻ ഇപ്പോൾ ചെയ്ത പോസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രൊഫൈൽ ചിത്രം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഹാൻഡിൽ എന്നിവ നിങ്ങൾ നോക്കേണ്ടതില്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമയത്തിലേക്ക് തിരിച്ചു പോകാനും ഞാൻ മുമ്പ് ചെയ്ത പോസ്റ്റ് നോക്കാനും അതിൽ നിന്ന് നിങ്ങൾക്ക് ചില വിവരങ്ങൾ നേടാനും കഴിയും ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരുന്ന ഒരു കാര്യം ആളുകൾ യഥാർത്ഥത്തിൽ ചിലപ്പോൾ അവരുടെ യൂസർ ഹാൻഡിലുകൾ മാറ്റുന്നു എന്നാണ് അതിനാൽ ഒരേ പ്രൊഫൈൽ തന്നെയാണോ എന്ന് മനസിലാക്കാൻ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ വിവരങ്ങൾ ഉപയോഗിക്കാനാകുമോ ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് യഥാർത്ഥത്തിൽ യൂസർനെയിം ന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ കാണിക്കുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം പ്രൊഫൈലുകളുടെ ചില വിശദാംശങ്ങൾ കാലക്രമേണ മാറിയേക്കാം ഇപ്പോൾ ഉള്ള വിശദാംശങ്ങൾ നിങ്ങൾ നോക്കേണ്ടതില്ല എന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭൂതകാലത്തിലേക്ക് നോക്കാം അതിനാൽ അതാണ് പ്രശ്നം ആ ചോദ്യമാണ് നമ്മൾ ഇവിടെ ഉത്തരം നൽകാൻ ശ്രമിക്കുന്നത് അതിനാൽ ഇവിടെ 376 ദശലക്ഷം ഉപയോക്താക്കൾ ട്രാക്ക് ചെയ്യുകയും ഗ്രാഫിൽ X ആക്സിസ് സമയം കാണിക്കുകയും വൈ ആക്സിസ് ഒന്നിലധികം സ്ക്രീൻ പേരുകളുള്ള ഉപയോക്താക്കളുടെ ശതമാനം കാണിക്കുകയും ചെയ്യുന്നു അതായത് അവർ മാറ്റിയ പേരുകൾ ഉദാഹരണത്തിന് എന്റെ കാര്യത്തിൽ നിലവിൽ എനിക്ക് പൊൻങ്കുരു ഉണ്ട് പണ്ട് ഞാൻ പൊൻങ്കുരു123 അല്ലെങ്കിൽ പ്രൊഫസർ ഐഐടി ഡൽഹി ഉപയോഗിക്കുമായിരുന്നു ആ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇവിടെ പിടിച്ചെടുക്കുന്നു അതായത് ഏകദേശം 7 ശതമാനം ആളുകൾക്ക് വ്യത്യസ്ത യൂസർ നെയിം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ യൂസർ നെയിം മാറ്റി 2011 ജനുവരിയിൽ നമ്മൾ ശേഖരിച്ച ഡാറ്റയിലായിരുന്നു ഇത് അതാണ് അനുമാനിക്കാനുള്ള മാർഗ്ഗം 2010 ജനുവരിയിലോ 2010 ഫെബ്രുവരിയിലോ മറ്റൊരു പീക്ക് ഉണ്ട് ഈ ഗ്രാഫിലെ രണ്ട് പീക്ക് കൾ അടിസ്ഥാനപരമായി നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ട്രാക്കുചെയ്യുന്ന ഉപയോക്താക്കളിൽ 5 മുതൽ 6 ശതമാനം വരെ മാറ്റപ്പെട്ട ഹാൻഡിലുകൾ ആണ് അക്കൌണ്ട് ഉപയോക്താവിന്റെ ഏകദേശം 7 ശതമാനം കൈകാര്യം ചെയ്യുന്നത് 2011 ജനുവരിയിലോ 2010 ഡിസംബറിലോ ആണ് അതിനാൽ ആളുകൾ അക്കൌണ്ടുകൾ മാറ്റുന്നു ആളുകൾ അവരുടെ ഹാൻഡിലുകൾ മാറ്റുന്നുവെന്ന് ഇത് അടിസ്ഥാനപരമായി കാണിക്കുന്നു ഈ പ്രഭാഷണം കേൾക്കുന്ന ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഹാൻഡിലുകൾ എത്ര പേർ യഥാർത്ഥത്തിൽ മാറ്റിയിരിക്കുന്നു ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഇത് ഒരു തവണ മാത്രമേ മാറ്റാൻ കഴിയൂ എന്ന് ഞാൻ കരുതുന്നു എന്നാൽ ട്വിറ്ററിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അത് മാറ്റാനാകും ഇതിനർത്ഥം ഇടയ്ക്കിടെ നിങ്ങളുടെ അക്കൌണ്ട് മാറ്റുന്നത് തുടരാനാകുമെന്നാണ് അതിനാൽ അതേ ത്രെഡിൽ തുടരുകയാണെങ്കിൽ അത് യൂസർനെയിം മാറ്റുന്നതിന്റെ വിശദാംശങ്ങളെക്കുറിച്ചാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ യൂസർനെയിം പേര് വിവരണം സ്ഥാനം ഭാഷ മേഖല പ്രൊഫൈൽ ചിത്രം എന്നിവ ഉപയോക്താവിന്റെ വിശദാംശങ്ങൾ എന്നിവ X ആക്സിസ് നൽകുന്നു കൂടാതെ Y ആക്സിസ് ഉപയോക്താക്കളുടെ ശതമാനം കാണിക്കുന്നു ഈ സാഹചര്യത്തിൽ 8 ദശലക്ഷം ഉപയോക്താക്കളെ യഥാർത്ഥത്തിൽ 2 മാസത്തേക്ക് പരിശോധിച്ചു യൂസർനെയിം ൽ എന്താണ് അർത്ഥമാക്കുന്നത് ഏകദേശം 6 മുതൽ 7 ശതമാനം വരെ ഉപയോക്താക്കൾ അവരുടെ യൂസർനെയിം ഒരു തവണയെങ്കിലും മാറ്റുമ്പോൾ ഈ ഉപയോക്താക്കൾക്ക് രണ്ട് മൂല്യങ്ങൾ ഉണ്ടാകും ഗ്രാഫ് വായിക്കുന്ന രീതി അതാണ് നമുക്ക് നല്ലതിലേക്ക് പോകാം അല്ലെങ്കിൽ ഉയർന്നത് പ്രൊഫൈൽ ചിത്രത്തിന്റെ കാര്യത്തിൽ ട്രാക്ക് ചെയ്യപ്പെട്ട 8 ദശലക്ഷം ആളുകളിൽ ഏകദേശം 40 മുതൽ 35 ശതമാനം വരെ ആളുകൾ അവരുടെ പ്രൊഫൈൽ ചിത്രം 3 തവണ മാറ്റി അതിനാൽ അത് നീലയെ പ്രതിനിധാനം ചെയ്യുന്നു അതിന്റെ മുകളിൽ അതായത് മഞ്ഞ ഏകദേശം 40 മുതൽ 20 ശതമാനം ആളുകൾ 4 തവണ പ്രൊഫൈൽ ചിത്രങ്ങൾ മാറ്റിയതിനെ പ്രതിനിധാനം ചെയ്യുന്നു ഏകദേശം 10 ശതമാനം ആളുകൾ 5 തവണ മാറ്റി അതായത് രണ്ട് മാസത്തിനിടെ ഏകദേശം 10 ശതമാനം ആളുകൾ തങ്ങളുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ 5 തവണയെങ്കിലും മാറ്റി നിങ്ങളുടെ പെരുമാറ്റവുമായി നിങ്ങൾക്ക് ഇത് ബന്ധപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതായത് നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ ചിത്രം മാറ്റി എന്റെ കാര്യത്തിൽ ഒരുപക്ഷേ ഞാൻ എന്റെ പ്രൊഫൈൽ ചിത്രം വർഷത്തിലൊരിക്കലോ ഒന്നര വർഷത്തിലൊരിക്കലോ മാറ്റും എന്നാൽ പലരും അവരുടെ പ്രൊഫൈൽ ചിത്രം തുടരെ തുടരെ മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനാൽ ഇത് പ്രതിഫലിക്കുന്നത് ഏറ്റവും വലത്തേ അറ്റത്താണ് കൂടാതെ ഇടതുവശത്ത് യൂസർനെയിം പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 35 ശതമാനം ആളുകൾ അവരുടെ വിവരണം മാറ്റുന്നു ഡൽഹി ഐഐടിയിലെ പ്രൊഫസർ പോലെ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും ഈ ഡാറ്റ ശേഖരിച്ചു ആരും ഭാഷ മാറ്റില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവർ ഉള്ള സമയ മേഖല മാറ്റുന്നത് അതിനാൽ അടിസ്ഥാനപരമായി ഈ ഗ്രാഫും ഈ ഗ്രാഫും അതായതു സ്ലൈഡ് 11 ഉം സ്ലൈഡ് 12 ഉം അടിസ്ഥാനപരമായി അക്കൌണ്ടിലെ വിവരങ്ങളിലെ മാറ്റം നിങ്ങൾക്ക് കാണിക്കുന്നു അതിനാൽ ആളുകൾ അവരുടെ ഹാൻഡിലുകൾ എങ്ങനെ മാറ്റുന്നുവെന്ന് കാണിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം മാത്രമാണ് അദ്ദേഹം ഉദാഹരണത്തിന് എന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ട്വിറ്റർ ഉണ്ട് അങ്ങനെയാണ് ടി 1 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ പിന്നീട് എനിക്ക് എന്റെ യൂസർ ഹാൻഡിലുകൾ പൊൻങ്കുരു ആയി എക്സ്പ്ലോറർ അണ്ടർസ്കോർ പികെ എക്സ്പ്ലോറർ പികെ ആയി മാറ്റാം മൂന്ന് സമയത്ത് എനിക്ക് എന്റെ അക്കൌണ്ട് മാറ്റാനാകും യുക്തിസഹമായ തമിഴൻ അതിനായി ആ സന്ദർഭത്തിൽ ആദ്യം ഇത് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നതായിരുന്നു പൊൻഗുരു എന്റെ പേരിൽ നിന്ന് നമുക്ക് അത് ഉരുത്തിരിഞ്ഞേക്കാം ഞാൻ എക്സ്പ്ലോറർ അണ്ടർസ്കോർ പികെ പര്യവേക്ഷണം ചെയ്തപ്പോൾ അത് ചെറുതായി അജ്ഞാതമാവുകയും യുക്തിസഹമായ തമിഴൻ പോലെ തന്നെ ആണ് അത് അജ്ഞാതമാവുകയും ചെയ്യുന്നു കൂടാതെ ഇത് പൊരുത്തപ്പെടുന്നില്ല പൊൻങ്കുരുവും പൊൻങ്കുരുt1 വേഴ്സസ് പോങ്കുരുവും യുക്തിസഹമായ തമിലിയൻടി3 ഉം കൈകാര്യം ചെയ്യുന്നുവെന്ന് കാണിക്കുന്നതിനാണ് സ്ലൈഡിൽ പ്രകടിപ്പിച്ചിരിക്കുന്ന കാര്യം അതിനാൽ ഈ ഹാൻഡിലുകൾ ഒരുമിച്ച് ചേർക്കുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ട് രണ്ട് ഉപയോക്താക്കൾക്ക് നൽകി ഇത് ചോദ്യം ചോദിക്കാനുള്ള കൂടുതൽ ശാസ്ത്രീയ മാർഗമാണ് രണ്ട് യൂസർ പ്രൊഫൈലുകളും അതാത് യൂസർനെയിം നൽകി ഓരോന്നും പഴയതും നിലവിലുള്ളതുമായ യൂസർനെയിം ഉൾക്കൊള്ളുന്നു പ്രൊഫൈലുകൾ ഒരേ വ്യക്തിയെ പരാമർശിക്കുന്നുണ്ടോ എന്ന് നമ്മൾകണ്ടെത്തേണ്ടതുണ്ട് അതാണ് നമ്മൾ ചോദിക്കാൻ ശ്രമിക്കുന്ന ചോദ്യം ഞാൻ നിങ്ങൾക്ക് പൊൻങ്കുരു നൽകുന്നു പൊൻങ്കുരുവിന്റെ നിലവിലെ യൂസർ ഹാൻഡിലും പഴയ യൂസർ ഹാൻഡിലുകളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഡൽഹി ഐഐടിയിലെ പ്രൊഫസറും ഫേസ്ബുക്കിലെ പൊൻരംഗം ഡോട്ട് കുമാരഗുരു ponurangam kumaraguru ഉം ട്വിറ്ററിലെ പൊൻങ്കുരു ഉം ലിങ്ക്ഡ്ഇനിലെ പൊൻങ്കുരു ഉം എല്ലാം നിങ്ങൾക്ക് ഒരേ പൊൻങ്കുരു തന്നെ ആണ് എന്ന് പറയാമോ അതിനാൽ ഈ സ്ലൈഡിൽ വിവരിച്ചിരിക്കുന്ന പോയിന്റ് എന്തുകൊണ്ടാണ് നമ്മൾ യൂസർനെയിം മാത്രം മാറ്റമായി കാണേണ്ടത് എന്നതാണ് പ്രൊഫൈൽ ലിങ്കിംഗ് പഠിക്കാൻ നമുക്ക് ഹിസ്റ്ററി യിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിക്കാനാകും കാരണം ഇത് ഒരു ഉപയോക്താവിന് സാർവത്രികവും പൊതുവായി ലഭ്യമായതുമായ ആട്രിബ്യൂട്ട് ആണ് നിങ്ങളുടെ യൂസർ ഹാൻഡിൽ സ്വകാര്യമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ചിലപ്പോൾ ഹാൻഡിലുകളുടെ ലൈനുകളും നിയന്ത്രിച്ചിരിക്കുന്നു അതിനാൽ അനന്തമായ ഇടമല്ല ഞാൻ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് വിവരശേഖരണത്തിന്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ശേഖരിക്കാൻ കഴിയുന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ യൂസർ ഹാൻഡിലുകൾ ശേഖരിക്കുന്നത് എളുപ്പമാണ് അതിനാൽ യൂസർനെയിം പഠിക്കുന്നത് നമ്മൾ നോക്കിയ രീതിയാണ് ഇത് അതിനാൽ ഇത് അല്പം സാന്ദ്രമായ സ്ലൈഡാണ് യഥാർത്ഥത്തിൽ ഈ സ്ലൈഡ് എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഇതിൽ എന്താണ് നൽകിയിരിക്കുന്നത് Refer Slide Time 1815 അതിനാൽ നമുക്ക് പ്രശ്ന പ്രസ്താവനയിലേക്ക് മടങ്ങാം പ്രശ്ന പ്രസ്താവന രണ്ട് യൂസർ പ്രൊഫൈലുകളും അതാത് യൂസർനെയിം സെറ്റുകളും നൽകി ഞാൻ നിങ്ങൾക്ക് പൊൻങ്കുരുവിന്റെ ഹാൻഡിൽ നൽകുന്നുവെങ്കിൽ അത് ആരാണെന്ന് എനിക്ക് കണ്ടെത്താനാകുമോ എന്നതാണ് അതിനാൽ അതാണ് ഈ സ്ലൈഡിൽ യഥാർത്ഥത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ഇത് എസ്എൻ എ ആണ് നമ്മുടെ കാര്യത്തിൽ എസ്എൻ എ ട്വിറ്റർ ആയി എടുക്കുന്നു ഫേസ്ബുക്ക് ആയി എസ്എൻ ബി ആയി എടുത്തിട്ടുണ്ട് ഈ രണ്ട് നെറ്റ്വർക്കുകളിലെ ഹാൻഡിലുകൾ നോക്കാനും നമ്മൾ നോക്കുന്ന ഹാൻഡിലുകൾ ഒന്നുതന്നെയാണോ എന്ന് കണ്ടെത്താനും പോകുന്നു അതിനാൽ നമ്മൾ സവിശേഷതകൾ നോക്കുന്നു ഉദാഹരണത്തിന് പ്രൊഫൈൽ ചിത്രം അക്കൌണ്ടിന്റെ സ്ഥാനം മുതലായവ നമുക്ക് ഈ വിശദാംശങ്ങൾ സവിശേഷതകളായി ഉപയോഗിക്കാനും അവ യഥാർത്ഥത്തിൽ ഒരേ യൂസർ ആണോ എന്ന് കണ്ടെത്താനും കഴിയും അതിനാൽ ഒരേ ചിത്രം തന്നെയാണോ എന്ന് കണ്ടെത്താനുള്ള വളരെ രസകരമായ ഒരു മാർഗ്ഗവും വളരെ എളുപ്പമുള്ള മാർഗ്ഗവും ഇതാ ഈ ഫീച്ചർ ഉപയോഗപ്രദമാകാൻ സാധ്യതയില്ല എന്നാൽ മിക്കപ്പോഴും ഈ സവിശേഷത വളരെ സഹായകരമാണ് ഇത് എന്താണ് ഇത് ട്വിറ്റർ ഹാൻഡിൽ ആണ് ഈ സാഹചര്യത്തിൽ യൂസർ എൽ യൂ സ് വൈ ആണ് യൂസർ യഥാർത്ഥത്തിൽ ഈ പേജിൽ സ്വന്തം ടംബ്ലർ അക്കൌണ്ട് ബന്ധിപ്പിക്കുന്നു അതിനാൽ ഈ ഹാൻഡിലിന്റെ ടംബ്ലർ അക്കൌണ്ട് കണ്ടെത്തണമെങ്കിൽ ഞാൻ പ്രൊഫൈൽ നോക്കിയാൽ മതിയെന്ന് പറയാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു അതേ രീതിയിൽ എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്റെ ലിങ്ക്ഡ്ഇനിലോ എന്റെ ഫേസ്ബുക്കിലോ പോയാൽ അവിടെയും എന്റെ ട്വിറ്റർ അക്കൌണ്ട് ഉണ്ട് അതിനർത്ഥം ഞാൻ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അങ്ങനെയാണ് ഞാൻ എന്നെ ട്വിറ്ററിൽ തിരിച്ചറിയുന്നത് നിങ്ങളിൽ ചിലർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ കാര്യത്തിൽ എന്റെ ട്വിറ്റർ അക്കൌണ്ടിൽ തീർച്ചയായും എന്റെ പ്രീകോഗ് ഡോട്ട് ഐ ഐ ടി ഡോട്ട് ഇ ഡി യൂ ഡോട്ട് ഐ എൻ precog in യുആർഎൽ ഉണ്ട് ഈ സ്വയം തിരിച്ചറിയൽ സംഭവിക്കുന്ന മറ്റൊരു വഴിയുമുണ്ട് ഞാൻ അത് പലപ്പോഴും ചെയ്യുന്നു ഞാൻ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു ഞാൻ ആ ആൽബത്തിന്റെ ലിങ്ക് എടുത്തു അത് എന്റെ ട്വിറ്റർ അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊൻഗുരു ട്വിറ്റർ അക്കൌണ്ടിൽ ബന്ധിപ്പിക്കാൻ കഴിയും അതേ അക്കൌണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് അതിനാൽ അവർ യഥാർത്ഥത്തിൽ ഒരേ ആളുകളായിരിക്കണം പ്രൊഫൈൽ ചിത്രം ഇല്ലാതെ പോലും എന്റെ പ്രൊഫൈൽ ചിത്രം വ്യത്യസ്തമാണെങ്കിൽ പോലും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഇത് ഉപയോഗിക്കാം ഇത് യഥാർത്ഥത്തിൽ ഒരേ ഉപയോക്താവാണ് അത് അർത്ഥവത്താണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇത് ശരിയല്ലായിരിക്കാൻ ഒരു ചെറിയ സാധ്യതയുണ്ട് എന്നാൽ മിക്കപ്പോഴും ഇത് യഥാർത്ഥത്തിൽ പ്രവചനാതീതമാണ് വിദ്യാർത്ഥി സാർ ഒരു വ്യക്തി ട്വിറ്ററിൽ അത്ര സജീവമല്ല മറിച്ച് ഫേസ്ബുക്കിൽ സജീവമാണെങ്കിൽ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം പൊന്നുരംഗം കുമാരഗുരു സജീവമല്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല പ്രവർത്തന ആവൃത്തി യഥാർത്ഥത്തിൽ ഇവിടെ പ്രധാനമാണ് വിദ്യാർത്ഥി സജീവമല്ല എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ ട്വിറ്ററിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ കാര്യം ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല പൊന്നുരംഗം കുമാരഗുരു ഓ തീർച്ചയായും ആ വ്യക്തി അതേ കാര്യം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകും എന്നാൽ ആ വ്യക്തി അത് ചെയ്യുകയാണെങ്കിൽ അത് സമാനമായിരിക്കണമെന്നില്ല ഞാൻ പറയുന്നത് ചിത്രങ്ങളുടെ ലിങ്ക് ആണ് അത് ഒരേ പോസ്റ്റായിരിക്കാം ഒരേ സമയം രണ്ട് പേജുകൾക്കും രണ്ട് അക്കൌണ്ടുകളും അത് പോലും പ്രയോജനകരമാണ് അല്ലേ ആ വ്യക്തി പോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്നാൽ ആ വ്യക്തിക്ക് ഒരേ പ്രൊഫൈൽ ചിത്രവും അതേ വിവരണവും അതുപോലുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് അവരെ ഒരുമിച്ച് ചേർക്കാം ഉദാഹരണത്തിന് എന്റെ പോസ്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ 10 30 പോസ്റ്റുകളും ട്വിറ്ററിൽ 10 30 പോസ്റ്റുകളും ലിങ്ക്ഡ്ഇനിൽ 10 30 പോസ്റ്റുകളും ഒരേ സമയം ചെയ്യും എല്ലാം ഒരേ ഉള്ളടക്കമായിരിക്കും അതിനാൽ ഇപ്പോൾ ഞാൻ എന്റെ ട്വിറ്റർ അക്കൌണ്ട് പോങ്കുരുവിൽ നിന്ന് ഐഐടിയിലെ പ്രൊഫസറായി ഞാൻ മാറ്റിയാലും നിങ്ങള്ക്ക് കണ്ടെത്താൻ കഴിയും നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും കാരണം ഒരേ സമയം ഒരേ ഉള്ളടക്കം ആണ് ഇതിൽ ഉള്ളത് വിദ്യാർത്ഥി എനിക്ക് ഒരു ഫേസ്ബുക്ക് അക്കൌണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് പതിവായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ട്വിറ്ററിൽ ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അക്കൌണ്ടുകൾ ബന്ധിപ്പിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ട്വിറ്റർ അക്കൌണ്ടിൽ ഒന്നുമില്ലെങ്കിൽ അതിനെ ബന്ധിപ്പിക്കാൻ കഴിയുമോ പൊന്നുരംഗം കുമാരഗുരു തീർച്ചയായും അതിനാൽ ട്വിറ്ററിൽ ഉള്ളടക്കമില്ലെങ്കിൽ അത് അൽപ്പം ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതുന്നു അക്കൌണ്ടിൽ അക്കൌണ്ടിനെക്കുറിച്ച് ചില വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വിവരണമോ യൂസർ പ്രൊഫൈൽ ചിത്രമോ എടുക്കാം അപ്പോൾ അത് എളുപ്പമാണ് എന്നാൽ ഞാൻ കൂടുതൽ വിശദീകരിക്കട്ടെ ആ വ്യക്തിക്ക് ഒരു ട്വിറ്റർ അക്കൌണ്ട് പോലുമില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം അതും ഒരു പ്രശ്നമാണ് അതിനാൽ ആ വ്യക്തിക്ക് പ്രവർത്തനമില്ലെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ വ്യക്തിക്ക് ഒരു ഹാൻഡിൽ പോലുമില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥി എനിക്ക് എന്റെ യഥാർത്ഥ ട്വിറ്റർ അക്കൌണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കാം പൊന്നുരംഗം കുമാരഗുരു അതെ അതെ അതിനാൽ ട്വിറ്ററിലെ എന്റെ അക്കൌണ്ടിലെന്നപോലെ പോങ്കുരുവിന്റെ എന്റെ അക്കൌണ്ടും സോനു ഗുപ്തയുടെ എന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടും ഉണ്ട് നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾക്ക് അവയെ ഒരുമിച്ച് ചേർക്കാൻ കഴിയില്ല ഹാൻഡിലുകളിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് അവയെ ഒരുമിച്ച് ചേർക്കാനാവില്ല എന്നാൽ അതുകൊണ്ടാണ് ഈ സവിശേഷതകളെല്ലാം ഒരുമിച്ച് ചേർക്കാൻ നാം എന്താണ് ഉപയോഗിക്കേണ്ടത് പ്രൊഫൈൽ പിക്ചറിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റുകൾ എന്നാൽ ഈ അക്കൌണ്ട് രണ്ട് സ്വതന്ത്രമായി നിലനിർത്താൻ നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് അസാധ്യമാണെന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഫേസ്ബുക്ക് പോലുള്ള കമ്പനികൾക്ക് ഈ പ്രഭാഷണങ്ങളിൽ നമ്മൾ എടുക്കുന്നതിനപ്പുറമുള്ളത് ചെയ്യാൻ കഴിയും അവർക്ക് യഥാർത്ഥത്തിൽ ഐ പി അഡ്രസ്സ് നോക്കാനാകും ആക്സസ് ചെയ്ത സമയം അവർക്ക് നോക്കാനാകും അതിനാൽ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഡാറ്റ ശേഖരിക്കാനുള്ള വഴികൾ ഇത് കാണിക്കുന്നു അതിനാൽ മുകളിലുള്ളത് ഒരു ഹാൻഡിൽ ട്രാക്ക് ചെയ്യാൻ നിങ്ങളെ കാണിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ പോങ്കുരുവിന്റെ ട്രാക്ക് സൂക്ഷിക്കുക എന്റെ ഹാൻഡിൽ എന്താണ് ഞാൻ എന്ത് പോസ്റ്റാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും നിങ്ങൾ വന്നു ഈ ഹാൻഡിൽ നോക്കുക പെട്ടെന്ന് ഞാൻ ഐഐടിയിലെ പ്രൊഫസറായി മാറുന്നു മാറ്റം സംഭവിച്ചുവെന്ന് നിങ്ങൾക്ക് പറയാം ഇക്കാരണത്താൽ ഡാറ്റ എങ്ങനെയാണ് ട്വിറ്ററിൽ സംഭരിക്കുന്നത് ട്വിറ്ററിലെ അടിസ്ഥാന ആശയം അവർ നിങ്ങൾക്ക് ഒരു അദ്വിതീയ ഐഡി നൽകുന്നു എന്നതാണ് അത് മാറുന്നില്ല ആ ഐഡി ഹാൻഡിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ആ ഹാൻഡിൽ മാറ്റാൻ കഴിയും അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഐഡി ട്രാക്ക് ചെയ്യുക ഈ ഐഡി 24 ആണെന്ന് നിങ്ങൾക്കറിയാം ഇത് യഥാർത്ഥത്തിൽ പൊങ്കുരു ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ 24 ന്റെ ട്രാക്ക് സൂക്ഷിക്കാൻ കഴിയും തുടർന്ന് പോങ്കുരു ഐഐഐടിയിലെ പ്രൊഫസറിലേക്ക് മാറുന്നു ഈ ഹാൻഡിൽ യഥാർത്ഥത്തിൽ മാറിയെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഡാറ്റാബേസിലേക്ക് അത് ചേർക്കുക അപ്ഡേറ്റ് ചെയ്യുക ഇത് നോക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം യുആർഎൽ മാറ്റമാണ് മറ്റ് അക്കൌണ്ടുകളുമായി ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വ്യക്തി യഥാർത്ഥത്തിൽ യുആർഎൽ മാറ്റുന്നു ഞാൻ പറഞ്ഞ ടംബ്ലർ പോലെ ആരെങ്കിലും യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നു ഞാൻ ടംബ്ലർ അക്കൌണ്ടുകളുടെ ട്രാക്ക് സൂക്ഷിക്കുകയും മറ്റ് അക്കൌണ്ടുകളുടെ ട്രാക്ക് സൂക്ഷിക്കുകയും ചെയ്യുന്നു അവിടെ എന്റെ ടംബ്ലർ അക്കൌണ്ട് മാറിയെന്ന് പറയാൻ പ്രൊഫൈൽ യഥാർത്ഥത്തിൽ അവരുടെ വിവരണം മാറ്റുന്നു അല്ലെങ്കിൽ ടംബ്ലർ ൽ അവർ എന്റെ ടംബ്ലർ അക്കൌണ്ട് മാറിയെന്ന് പറയുന്നു അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ട്രാക്ക് വീണ്ടും സജ്ജമാക്കാൻ കഴിയും അതിനാൽ അക്കൌണ്ടുകൾ മാറിയ അല്ലെങ്കിൽ ഹാൻഡിലുകൾ മാറിയ ഉപയോക്താക്കളുടെ ഒരു ഉദാഹരണം ഇതാ 24 ന്റെ ഉപയോക്തൃ ഐഡി ഈ സാഹചര്യത്തിൽ 59592942 ആണ് അതാണ് ഹാൻഡിൽ അതാണ് യൂസർ ഐഡി നമ്മൾ അത് ട്രാക്കുചെയ്യുന്നു ഈ ഹാൻഡിൽ അതിനെ മാറ്റിയ പേരുകൾ നിങ്ങൾ നോക്കിയാൽ അത് ബിയാസി അണ്ടർസ്കോർ റീസി 11 എപ്പിസെറിക് അണ്ടർസ്കോർ സാംസൺ എക്സ് വൈ സാംകിഡ് എന്നിവ ആണ് ഇത് യഥാർത്ഥത്തിൽ 7 തവണ ഹാൻഡിലുകൾ മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ ഒരേ ഉപയോക്തൃ അക്കൌണ്ട് നോക്കുകയാണെങ്കിൽ ഇതും നാല് തവണ മാറിയതായി തോന്നുന്നു എന്നാൽ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഉപയോക്താക്കളുടെ ഹാൻഡിലുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത് ശരിക്കും നോക്കാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ സാംപ്സൺ ഉണ്ട് തുടർന്ന് സാംസൺ അണ്ടർസ്കോർ ട്വിറ്ററിൽ ഉണ്ട് അവർ ഒരേ വ്യക്തിയാണോ ഉദാഹരണത്തിന് നിങ്ങളിൽ പലർക്കും പൊതുവായ പേരുകളുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉദാഹരണത്തിന് പൊന്നുരാഗൻ കുമാരഗുരു അത്ര സാധാരണ പേര് അല്ല നിങ്ങൾക്ക് ഒരു അക്കൌണ്ട് സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഹാൻഡിൽ ലഭിക്കും എന്നാൽ നമ്മൾ ശ്രുതി ഗുപ്ത യെ എടുക്കുകയാണെങ്കിൽ അത് വളരെ സാധാരണമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒരു അക്കൌണ്ട് സൃഷ്ടിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രിസ്തി ഗുപ്ത യെ ലഭിക്കില്ല അതിനാൽ നിങ്ങൾക്ക് ഒരുപക്ഷേ ശ്രിസ്തി ഗുപ്ത 1 2 3 സോനു ഗുപ്ത 2 4 6 197 എന്നിവ ലഭിക്കാൻ പോകുന്നു അതുകൊണ്ടു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും കൂടാതെ ഹാൻഡിൽ ചില ഭാഗങ്ങൾ വളരെ സമാനമാണ് അപ്പോൾ അവർ ഒരേ ആളുകളാണോ നിങ്ങൾക്ക് ജക്കാർഡ്സ് ലെങ്ത് jackards length ഉപയോഗിക്കാം കൂടാതെ മറ്റു പലതും ഉണ്ട് ദൂരം എഡിറ്റ് ചെയ്യുക ഹാൻഡിൽ പരസ്പരം എത്ര അകലെയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന മറ്റ് നിരവധി അളവുകളും ഉണ്ട് അത് ഒരേ വ്യക്തിയാണോ എന്ന് പറയാനും ഉപയോഗിക്കാം അതിനാൽ ഞാൻ മുമ്പ് കാണിച്ച അതേ സ്ലൈഡിന്റെ ഒരു പതിപ്പ് ഇതാ ഉപയോക്തൃനാമങ്ങൾ ശേഖരിക്കുന്നു അതാണ് ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ചേർക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില സവിശേഷതകൾ നമ്മൾ നോക്കുന്നു തുടർന്ന് പ്രവചനങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തും ഹാൻഡിലുകൾ ഒന്നുതന്നെയാണോ എന്ന് തിരിച്ചറിയുന്ന മുഴുവൻ പ്രക്രിയയിലും മുമ്പ് എനിക്ക് ഏകദേശം 5 അല്ലെങ്കിൽ 8 സ്ലൈഡുകൾ മുൻപ് ഉണ്ടായിരുന്ന അതേ സ്ലൈഡാണ് ഇത് അതിനാൽ നമ്മുടെ ജോലിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സവിശേഷതകൾ ഇവിടെയുണ്ട് ഇത് യൂസർനെയിം സൃഷ്ടിക്കൽ സ്വഭാവമാണ് അവൾ സവിശേഷതകൾ വ്യത്യസ്ത ബക്കറ്റുകളായി തരംതിരിച്ചു യൂസർനെയിം പ്രതീകങ്ങളുടെ സമാന തിരഞ്ഞെടുപ്പ് പ്രതീകങ്ങളുടെ സമാന ക്രമീകരണം ട്വിറ്ററിലെ പോങ്കുരു ലിങ്ക്ഡ്ഇനിൽ ടോങ്കോറ 24 എന്നിവയിലും ടെമ്പറൽ ബിഹേവിയറൽ ഫീച്ചറിലും സമാനമായ ദൈർഘ്യം ദൈർഘ്യത്തിന്റെ പരിണാമം ഞാൻ 6 ൽ തുടങ്ങി ഇപ്പോൾ 7 ൽ ഇപ്പോൾ അത് 8 ആണ് ഏതുതരം കഥാപാത്രങ്ങൾ മാറുന്നു കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ പരിണാമം ഇതാണ് ഈ സവിശേഷതകളെല്ലാം നിങ്ങൾ ഇവിടെ കണ്ടാൽ ഈ സവിശേഷതകളിൽ ചിലത് ഇവിടെ ചർച്ച ചെയ്യാവുന്നതാണ് നിങ്ങൾ അക്കൌണ്ട് വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ ഉപയോക്താവ് ഒരേ പേരിൽ ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ആരംഭിച്ചു കുറച്ച് സമയത്തിന് ശേഷം ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടായി ട്വിറ്ററിലെ മൂന്നാമത്തേത് ഇൻസ്റ്റാഗ്രാമിലെ രണ്ടാമത്തേതിന് സമാനമാണ് ട്വിറ്ററിലെ അഞ്ചാമത്തേത് ഇൻസ്റ്റാഗ്രാമിലെ മൂന്നാമത്തേതിന് സമാനമാണ് അതിനാൽ നിങ്ങൾക്ക് ഈ പരിണാമം കണ്ടെത്താനും ഈ ഇടയ്ക്കിടെയുള്ള പുനരുപയോഗ പാറ്റേണുകളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാനും കഴിയും അതിനാൽ ഉപയോഗിക്കുന്ന അതേ യൂസർനെയിം ഉം സവിശേഷതകളും താൽക്കാലിക ഓർഡറിംഗും പ്രതീകങ്ങളും അവ എങ്ങനെ സ്ഥാപിക്കുന്നു നിങ്ങൾക്ക് ഈ സവിശേഷതകളെല്ലാം ഉപയോഗിക്കാം യൂസർനെയിം ലുടനീളമുള്ള പെരുമാറ്റ രീതികളായി പരിധി അതിനെ വിളിക്കുന്നു ഹാൻഡിലുകൾ ഒന്നുതന്നെയാണോ എന്ന് നോക്കേണ്ടതുണ്ട് നമ്മുടെ പക്കലുണ്ടായിരുന്ന സവിശേഷതകളുടെ എണ്ണം ഏകദേശം 56 ആണോ എന്ന് പറയാൻ നിങ്ങൾക്ക് ഈ സവിശേഷതകൾ ഉപയോഗിക്കാം ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി വിഭാഗത്തിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ആഴ്ച 1 അല്ലെങ്കിൽ ആഴ്ച 2 ൽ നമ്മൾ കണ്ടതായി ഞാൻ കരുതുന്നു അവിടെ നമ്മൾ ശരിക്കും ട്വീറ്റ് ക്രെട് ൽ 45 സവിശേഷതകൾ കണ്ടു ട്വിറ്ററിലെ വിശ്വസനീയമായ ഉള്ളടക്കത്തിൽ ട്വിറ്ററിൽ പോസ്റ്റുചെയ്തിരിക്കുന്ന ഈ പ്രത്യേക ഉള്ളടക്കം വിശ്വസനീയമാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നതിന് അദിതി ഉപയോഗിച്ച 45 ഫീച്ചറുകൾ നമ്മൾ കണ്ടു അതിനാൽ ഇപ്പോൾ ഉപയോക്താക്കളിൽ നിന്നുള്ള വിശദാംശങ്ങൾ ഹാൻഡിലുകളിൽ നിന്നുള്ള വിശദാംശങ്ങൾ ഫീച്ചറുകളിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ ഒരു കൂട്ടം ഉപയോക്താക്കളെ സൃഷ്ടിക്കാൻ നമുക്ക് അവയെല്ലാം ഒരുമിച്ച് എങ്ങനെ ചേർക്കാം എന്നിവ നോക്കാം തുടർന്ന് ഒരു വിധി പ്രസ്താവിക്കാം തന്നിരിക്കുന്ന ഔട്ട്പുട്ടുകൾക്ക് സോനു ഗുപ്തയും സോനു ഗുപ്ത123 യും ഒരേപോലെയാകാനുള്ള സാധ്യത 0 9 ആണ് സോനു ഗുപ്തയും സോനു ഗുപ്ത0917 ഉം ഒന്നാകാനുള്ള സാധ്യത ഏകദേശം 0 4 ആണ് അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കഴിയും അതാണ് അവസാന ഭാഗം അതിനാൽ ഇത് എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ വരെ കൂടുതൽ സൈദ്ധാന്തികമാണ് ഒന്നിലധികം സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് യഥാർത്ഥത്തിൽ ഡാറ്റ നേടുന്നതിനും നമുക്ക് എത്രത്തോളം നന്നായി ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തുന്നതിനും വേണ്ടി പരിഷി എന്താണ് ചെയ്തത് എന്നതുപോലുള്ള പ്രത്യേക കാര്യങ്ങൾ നോക്കാം അതിനാൽ നമുക്ക് ചില പ്രത്യേക ഉദാഹരണങ്ങൾ നോക്കാം ഈ സാഹചര്യത്തിൽ നമ്മൾ ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ടംബ്ലറും ട്വിറ്ററും ഫേസ്ബുക്കും തമ്മിൽ ശേഖരിച്ച ഡാറ്റയാണ് നോക്കുന്നത് കഴിഞ്ഞ യൂസർനെയിം ശേഖരിച്ചു സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് ശേഖരിച്ച 21000 പോസിറ്റീവ് ജോഡികളുടെ വിശദാംശങ്ങൾ പഴയ യൂസർനെയിം ട്വിറ്ററിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ എന്നാൽ മറ്റ് പ്രൊഫൈലുകളിൽ നിലവിലുള്ള ഉപയോക്തൃനാമങ്ങൾ ഏകദേശം 140000 ആണ് അതിനാൽ അടിസ്ഥാനപരമായി ആശയം നിലവിലുള്ളതും പഴയതുമായ ഉപയോക്തൃ ഹാൻഡിലുകളുടെ മൾട്ടിപ്പിൾസ് സോഷ്യൽ നെറ്റ്വർക്കുകൾക്കിടയിൽ ഡാറ്റ ശേഖരിക്കുകയും ഇത് ഒന്നിച്ചുചേർക്കുകയും ചെയ്തു ഈ ഹാൻഡിലുകൾ ഒന്നുതന്നെയാണോ എന്ന് കണ്ടെത്താൻ ഏതുതരം സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്നതാണ് ഞാൻ മുമ്പ് കാണിച്ച അതേ ഡയഗ്രം തന്നെ ഹാൻഡിലുകൾ എടുക്കുക ചില സവിശേഷതകൾ മനസ്സിലാക്കുക സവിശേഷതകൾ ഒരുമിച്ച് ചേർക്കുക സ്കോർ സൃഷ്ടിക്കുക അതാണ് ഇവിടെ ചെയ്യുന്നത് ഇതിനു രണ്ട് രീതികൾ ചെയ്തു ഒന്ന് നിങ്ങൾ സവിശേഷതകൾ മാത്രം ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്ത മറ്റൊരു രീതി ഒരു ക്ലാസിഫയർ ചെയ്ത് അത് പ്രയോഗിക്കുകയും അത് ഒരേ ഉപയോക്താവാണോ എന്ന് കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ഉപയോഗിച്ച വ്യത്യസ്ത രീതികൾ ഇതാ അവ കൃത്യമായ പൊരുത്തം വലത് ഹാൻഡിലുകളുടെ കൃത്യമായ പൊരുത്തം സബ്സ്ട്രിംഗ് പൊരുത്തം തുടർന്ന് ക്ലാസിഫയറുകൾ എന്നിവയാണ് വ്യത്യസ്ത തരംതിരിവുകൾ പ്രയോഗിച്ചു നിങ്ങൾ അവ നോക്കുകയാണെങ്കിൽ ആദ്യത്തേതും അഞ്ചാമത്തേതും പരമാവധി കൃത്യതയുള്ളവയാണ് അടിസ്ഥാനപരമായി നിങ്ങൾ ഹാൻഡിലുകൾ നോക്കിയാൽ ഹാൻഡിലുകൾ സമാനമായി കാണപ്പെടുന്നു അവ കൃത്യമായി പൊരുത്തപ്പെടുന്നെങ്കിൽ അവർ ഒരേ ഉപയോക്താക്കളാകാനുള്ള ഉയർന്ന സാധ്യതയാണ് അതായത് അവർ യഥാർത്ഥത്തിൽ വ്യത്യസ്ത ഉപയോക്താക്കളാകാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ എസ്വിഎം ക്ലാസിഫയർ ഉപയോഗിക്കുകയും തുടർന്ന് നമ്മൾ സംസാരിച്ച 26 സവിശേഷതകളും ഉപയോഗിക്കുന്ന അതേ ഉപയോക്താക്കൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഇത് പ്രയോഗിക്കുകയും ചെയ്താൽ അവർ സമാനരാകാനുള്ള ഉയർന്ന സാധ്യതയുണ്ട് ഏകദേശം 76 ശതമാനവും കൃത്യമായും ഒരേ ഹാൻഡിലുകളാണോ എന്ന് കണ്ടെത്താനുള്ള കൃത്യതയാണ് ഞാൻ ആരംഭിച്ച പ്രചോദനം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇത് ഈ പരസ്യം ആളുകൾക്ക് അയയ്ക്കുക എന്നതാണ് എന്റെ പണം പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് തിരികെ പോയി പ്രചോദനവുമായി ബന്ധിപ്പിക്കാം ഫേസ്ബുക്കിലും ട്വിറ്ററിലുമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പികെ അല്ലെങ്കിൽ എൻപിടിഇഎൽ പരസ്യം അയയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ വിവരങ്ങൾ ഒരു ഉപയോക്താവിന് ഒരു തവണ മാത്രമേ അയയ്ക്കാവൂ പണം പാഴാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതാണ് ഞാൻ ആരംഭിച്ച പ്രചോദനം പക്ഷേ പ്രചോദനം മറ്റ് പലതും ആകാം ചില ഉദാഹരണങ്ങളും ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ ഉപയോക്താവിന്റെ വികാരങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഏത് വിഷയവും നമുക്ക് എടുക്കാം ഇടതുവശത്തുള്ളത് ഫേസ്ബുക്കിലാണ് വലതുവശത്തുള്ളത് ട്വിറ്ററിലാണ് നിങ്ങൾ ശരിക്കും വികാരം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഇത് നോക്കൂ ഈ ആളുകളുടെ വികാരങ്ങൾ ഫേസ്ബുക്കിലും ട്വിറ്ററിലും പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവർ ഒന്നുതന്നെയാണോ അതോ വ്യത്യസ്തരാണോ അതോ ഒരേ ഉപയോക്താവാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഏത് വിഷയത്തിന്റെയും നിഷേധാത്മക വികാരം അളക്കാൻ കഴിയും ഇത് എല്ലാ സോഷ്യൽ നെറ്റ്വർക്കുകളിലെയും എല്ലാ നെഗറ്റീവ് വികാരങ്ങളുടെയും ആകെത്തുകയല്ല മറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന അതുല്യരായ ആളുകളുടെ മാത്രം ആണ് കാരണം ഞാൻ ഫെയ്സ്ബുക്കിൽ പോസിറ്റീവായ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും ട്വിറ്ററിൽ പോസിറ്റീവായി പറയുന്ന വ്യക്തി ആണെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി രണ്ടുതവണ അളക്കാനാകില്ല പക്ഷേ അത് ഒരു വ്യക്തിയുടെ മാത്രം വികാരമായതിനാൽ ഒരിക്കൽ മാത്രം അളക്കാൻ കഴിയു അതിനാൽ അത് മറ്റൊരു പ്രചോദനമാണ് ഈ ഐഡന്റിറ്റി പ്രമേയം രസകരമായ ഒരു പ്രശ്നമാകാനുള്ള മറ്റൊരു കാരണം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നോക്കാനാകും നിയമപാലകർക്ക് പോലും ഇത് ഉപയോഗിക്കാൻ കഴിയും അതായത് ആരെങ്കിലും ഒരു ക്ഷുദ്ര വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും മറ്റൊരു ഹാൻഡിൽ ഉണ്ടെങ്കിൽ അതേ വീഡിയോ ട്വിറ്ററിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു ഇത് പോസ്റ്റ് ചെയ്യുന്നത് അതേ വ്യക്തിയാണോ എന്ന് ഇപ്പോൾ എനിക്ക് കണ്ടെത്തണം ആരെങ്കിലും ട്വിറ്ററിൽ ചില ആളുകൾക്കോ ചില സംഘടനകൾക്കോ എതിരെ സംസാരിക്കുന്നു മറ്റൊരു നെറ്റ്വർക്കിലും ചില വ്യക്തികളെയോ ചില ഓർഗനൈസേഷനുകൾക്കോ എതിരെ സംസാരിക്കുന്ന മറ്റൊരു ഹാൻഡിൽ ഉണ്ട് ഇത് ഒരേ വ്യക്തിയാണോ എന്ന് എനിക്ക് അറിയണം കാരണം അത് രണ്ട് ആളുകളാണെന്ന് കരുതി സമയം പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഒരു വ്യക്തിയെ മാത്രമാണ് പിന്തുടരുകയും പിടിക്കുകയും ചെയ്യേണ്ടത് അതിനാൽ അതാണ് പ്രചോദനം ഈ രണ്ട് ഹാൻഡിലുകളും ഒന്നാണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള മറ്റൊരു പ്രചോദനം കൂടിയാണിത് അതിനാൽ ഈ ജോലി ചെയ്യുന്നതിന് വളരെ രസകരമായ പ്രചോദനമുണ്ട് കൂടാതെ ഒരാൾക്ക് യഥാർത്ഥത്തിൽ പരീക്ഷിക്കാൻ കഴിയുന്ന നിരവധി രസകരമായ കാര്യങ്ങളുണ്ട് അതിനാൽ ഈ ഭാഗത്ത് നിന്ന് അവസാനമായി എടുക്കുക പ്രൊഫൈൽ ലിങ്കിംഗ് പല സംഘടനകൾക്കും ആവശ്യമായി വന്നേക്കാം കാരണം ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ എന്റെ പണം പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എത്ര പേർ പോസ്റ്റുചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ പോസിറ്റിവിറ്റിയുടെയോ നിഷേധാത്മകതയുടെയോ അളവ് എന്താണ് അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഓൺലൈനിൽ സംസാരിക്കുന്നതെന്ന് കണ്ടെത്താനും ഉപയോക്താക്കളെ ബന്ധിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ജോലിയിൽ നിന്നുള്ള നിഗമനങ്ങൾ അടിസ്ഥാനപരമായി ആളുകൾക്കുള്ള നിലവിലെ ഹാൻഡിലുകളിൽ നിങ്ങൾ ബാങ്ക് ചെയ്യേണ്ടതില്ല എന്നതാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ നിലവിലുള്ള വിവരങ്ങൾ മുൻകാലങ്ങളിൽ നിന്നുള്ളവ ഉപയോഗിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ കാര്യക്ഷമതയും കൃത്യതയും തെളിയിക്കാൻ കഴിയും ഈ ചിത്രത്തിൽ കാണുന്ന ആള് ആണ് പരിധി ഈ വിഷയത്തിൽ അവൾ ചെയ്ത ജോലിയിൽ നിന്ന് പിഎച്ച്ഡി ബിരുദം നേടി ഇത് പരീക്ഷിക്കാൻ ഞാൻ ഈ ആഴ്ച സമയം തരുന്നു കോഴ്സിനായി നമുക്കുള്ള ക്വിസ് അല്ലെങ്കിൽ ഗൃഹപാഠവുമായി ഇത് ബന്ധിപ്പിക്കാം എന്നാൽ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ രണ്ട് വ്യത്യസ്ത സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിങ്ങളുടെ രണ്ട് അക്കൌണ്ടുകൾ എടുക്കുക അതായത് ഫേസ്ബുക്കും ട്വിറ്ററും നമുക്ക് ഫേസ്ബുക്കിലും ട്വിറ്ററിലും മാത്രം ഉറച്ചുനിൽക്കാം ഈ രണ്ട് ഹാൻഡിലുകൾ എടുത്താൽ മതി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പട്ടികപ്പെടുത്തുക ഈ രണ്ട് അക്കൌണ്ടുകളും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ കഴിയുന്ന വിവിധ വഴികൾ കണ്ടെത്തുക നമ്മൾ സംസാരിച്ച സവിശേഷതകൾ പട്ടികപ്പെടുത്തുക ഇവ അല്ലെങ്കിൽ മറ്റു പലതും ഉണ്ടാകാം ഇവ പട്ടികപ്പെടുത്തി പ്രൊഫൈലിൽ നിങ്ങൾ മാറ്റുന്ന കാര്യങ്ങൾ രണ്ട് വ്യത്യസ്ത അക്കൌണ്ട് നെറ്റ്വർക്കുകളായി കാണുന്നതിന് അവ പട്ടികപ്പെടുത്തുക നിങ്ങൾക്ക് രണ്ട് വഴികളും ചെയ്യാം രണ്ട് വ്യത്യസ്ത അക്കൌണ്ടുകളാക്കാൻ നിങ്ങൾ മാറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പട്ടികപ്പെടുത്താം അല്ലെങ്കിൽ ഒരേ അക്കൌണ്ട് ആക്കുന്നതിന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പട്ടികപ്പെടുത്താം ഇത് ഫോറത്തിൽ പങ്കിടുക നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം പ്രവർത്തനം വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൌണ്ട് എടുക്കണം നിങ്ങളുടെ ട്വിറ്റർ അക്കൌണ്ട് എടുക്കുക ലഭ്യമായ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അക്കൌണ്ടുകളുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നു അതാണ് ആദ്യത്തെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ഔtട്ട്പുട്ട് അത് സമാനമാക്കാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പട്ടികപ്പെടുത്തുക അതാണ് രണ്ടാമത്തെ അക്കൌണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ഔട്ട്പുട്ട് മൂന്നാമത്തെ ഔട്ട്പുട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പട്ടികപ്പെടുത്തുക അത് രണ്ട് വ്യത്യസ്ത അക്കൌണ്ടുകൾ ആയിരിക്കണം Refer Slide Time 4116 അതിനാൽ ഈ ആഴ്ചയിൽ എനിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആഴ്ച 8 2 ആരംഭിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിൽ തുടരും